സുപ്രഭാതം സുഹൃത്തുക്കളേ നിങ്ങൾ ഇതുവരെ സോഫ്റ്റ് സ്കില്ലുകളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പര ശ്രവിക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പ്ലൈഡ് ഗ്രാമർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രഭാഷണം അവസാന പ്രഭാഷണമായിരിക്കും അപ്പ്ലൈഡ് ഗ്രാമർ വ്യാകരണത്തെക്കുറിച്ചുള്ള ഈ അവസാന പ്രഭാഷണം എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം നിങ്ങൾക്ക് വ്യാകരണം അറിയില്ലെന്നാണോ അതിനർഥം എന്റെ പ്രിയ സുഹൃത്തുക്കളേ ഞങ്ങൾ വ്യാകരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വ്യാകരണം അറിയാം നിങ്ങളിൽ പലരും യഥാർത്ഥത്തിൽ ഞങ്ങളെക്കാൾ മികച്ച വ്യാകരണ വിദഗ്ധരാണ് എന്നാൽ വ്യാകരണം അറിയുമ്പോൾ ഏറ്റവും പ്രധാനം നമ്മുടെ ഭാഷയിൽ വ്യാകരണത്തിന്റെ പ്രയോഗം കാണുക എന്നതാണ് ഇപ്പോൾ വ്യാകരണം എന്ന വാക്കിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം അത് എന്തിനെ സൂചിപ്പിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ നിയമങ്ങളെ സൂചിപ്പിക്കുന്നു വ്യാകരണ നിയമങ്ങൾ മാത്രമല്ല കൃത്യതയുടെ സങ്കൽപ്പങ്ങളും നമ്മൾ എത്രത്തോളം ശരിയാണ് കൃത്യതയെക്കുറിച്ചുള്ള ആശയങ്ങൾ ഇവയെക്കുറിച്ചെല്ലാം സംസാരിക്കുമ്പോൾ ഓരോ ദിവസവും സംസാരിക്കുന്നതിലും എഴുതുന്നതിലും ആശയവിനിമയം നടത്തുന്ന സാഹചര്യങ്ങളുണ്ടെന്ന് ചില സമയങ്ങളിൽ നമ്മൾ കണ്ടെത്തുന്നു തുടർന്ന് നിങ്ങളെത്തന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ചില അവസരങ്ങളുണ്ട് നമുക്ക് വ്യാകരണം അറിയില്ലെന്ന് ഇതിനർത്ഥമില്ല എന്നാൽ വാസ്തവത്തിൽ നമ്മുടെ അമിത ഉപയോഗവും ഇന്നത്തെ പരസ്യ ലോകവും കാരണം ഇന്നത്തെ ഡിജിറ്റൽ മീഡിയ ലോകത്തും മറ്റു പലതിലും വ്യാകരണം നിയന്ത്രണാതീതമാണെന്ന് തോന്നുന്നു അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല നമ്മൾ നിസാരമായ തെറ്റുകൾ ചെയ്യുന്നു അതുകൊണ്ടാണ് ഈ അവസാന പ്രഭാഷണം വ്യാകരണത്തിന്റെ ചില ഭാഗങ്ങളിൽ കുറച്ച് വെളിച്ചം വീശുന്നതിനുള്ള ഒരു എളിയ ശ്രമമാണ് അവിടെ നമുക്ക് ചിലപ്പോഴൊക്കെ ഇളക്കം തോന്നുന്നു ഈ കോഴ്സിലൂടെ ഞാൻ നിങ്ങളെ വ്യാകരണം പഠിപ്പിക്കാൻ പോകുന്നു എന്നല്ല ഇതിനർത്ഥം എന്നാൽ ഞങ്ങളുടെ കൃത്യതയെക്കുറിച്ചുള്ള ആശയങ്ങളിൽ കുറച്ച് വെളിച്ചം വീശാൻ ഞാൻ ശ്രമിക്കുകയാണ് നമ്മളിൽ ഭൂരിഭാഗവും നല്ല പ്രഭാഷകരാണ് പക്ഷേ നമ്മുടെ കൃത്യത പരിശോധിക്കുമ്പോൾ എഴുതുമ്പോൾ വ്യാകരണ നിയമങ്ങളുടെ പ്രളയത്തിൽ നമ്മൾ പലപ്പോഴും ക്രിസ്ക്രോസ് ചെയ്യുന്നുവെന്ന് നമ്മൾക്ക് തോന്നുന്നു വ്യാകരണത്തെക്കുറിച്ച് എല്ലാം പറയുകയോ വ്യാകരണത്തിന്റെ എല്ലാ നിയമങ്ങളും ഒരു പ്രഭാഷണത്തിൽ മാത്രം ചർച്ച ചെയ്യുകയോ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാൻ കാണിക്കുകയും ചില കാര്യങ്ങളിൽ കുറച്ച് വെളിച്ചം വീശുകയും ചെയ്യും അത് നിങ്ങളെയും നമ്മളിൽ പലരെയും സംവേദനക്ഷമമാക്കും ഇവ വളരെ പ്രധാനപ്പെട്ട ചില ഇനങ്ങളാണ് ശരിയായ ഉപയോഗത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു റേസറിന്റെ വക്കിലാണെന്ന് കണ്ടെത്തുമ്പോൾ ഇപ്പോൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് കാണുന്നതിന് ഈ വാക്യങ്ങൾ നോക്കാം വാക്യത്തിൽ അർത്ഥം ഉണ്ടെങ്കിലും നിങ്ങൾ കണ്ടെത്തും പക്ഷേ കൃത്യത ലെവൽ പരിശോധിക്കാൻ വരുമ്പോൾ എന്തോ കുഴപ്പം ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തും ആദ്യ വാക്യങ്ങൾ കാണുക ഐ കൺഗ്രാജുലേറ്റ് യു ഫോർ യുവർ സക്സസ് ഇൻ യു പി എസ് സി എക്സാമിനേഷൻസ് I congratulate you for your success in UPSC examinations മൈ സ്റ്റുഡൻറ് ഈസ് എ എസ് ഡി ഓ My student is a SDO വേർ ഈസ് യുവർ പർട്ടിക്കുലർ Where is your particular ഡയബറ്റിസ് സ്കിൽസ് പീപ്പിൾ Diabetes kill people silently ദി സെക്രട്ടറി ആൻഡ് പ്രിൻസിപ്പിൾ ആർ ഓൺലി ലീവ് The secretary and principal are on leave ദി മാന് ഹൂ ഈസ് ക്ലാഡ് ഇൻ എൻജിൻ സ് ആർ മൈ നെയ്ബർ The man who is clad in jeans are my neighbor ഇപ്പോൾ നിങ്ങൾ വ്യാകരണ നിയമങ്ങൾ എടുക്കുകയും ഈ വാക്യങ്ങൾ പരിശോധിക്കാൻ ആരംഭിക്കുകയും ചെയ്താൽ ഈ വാക്യങ്ങളെല്ലാം വ്യാകരണത്തിന്റെ കൃത്യതയുമായി പൊരുത്തപ്പെടുന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വ്യാകരണപരമായി ഈ വാക്യങ്ങൾ തെറ്റാണ് അവ ഒരു പ്രശ്നമോ മറ്റോ അനുഭവിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ വ്യാകരണത്തിന്റെ മാനദണ്ഡങ്ങളെയും കൃത്യതയെയും കുറിച്ചുള്ള ഒരു ആശയം ആവശ്യപ്പെടുന്നു ചില വാക്യങ്ങളിൽ നമുക്ക് ക്രിയകളുടെ പ്രശ്നമുണ്ട് ചില വാക്യങ്ങളിൽ നമുക്ക് പ്രീപോസിഷനുകളുടെ പ്രശ്നമുണ്ട് ചിലതിൽ നമുക്ക് ബഹുവചന പ്രശ്നമുണ്ട് ചില വാക്യങ്ങളിൽ ഒരു ക്രമവുമില്ല യോജിപ്പില്ല ചിലതിൽ വിഷയം ക്രിയയുമായി പോകുന്നില്ലെന്ന് കണ്ടെത്തുക അടിസ്ഥാന നിയമം നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കാം ക്രിയയുടെ സംഖ്യയിലും വ്യക്തിയിലും അതിന്റെ വിഷയവുമായി യോജിക്കണം എന്ന ആദ്യ നിയമമാണ് ഞാൻ അർത്ഥമാക്കുന്നത് എന്നാൽ ബഹുവചനങ്ങളായി അല്ലെങ്കിൽ ചിലപ്പോൾ ഏകവചനമായി ഉപയോഗിക്കാമെന്ന് തോന്നിപ്പിക്കുന്ന നിരവധി പദങ്ങളുണ്ട് പക്ഷേ നമ്മൾ ക്രിയകൾ ഉപയോഗിക്കുമ്പോൾ ഞങ്ങളും ചില സമയങ്ങളിൽ ആശയക്കുഴപ്പത്തിലാണ് ഉദാഹരണത്തിന് നാമങ്ങളുടെ ഉപയോഗം പറയുക നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു പേരിന്റെ പേരിടൽ ഒരു വസ്തുവിന്റെ പേര് ഒരു വ്യക്തിയുടെ ഒരു ഉപകരണത്തിന്റെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു നാമപദമാണ് എന്നാൽ വസ്ത്രം പോലീസ് തുടങ്ങിയ വാക്കുകൾ ഈ വാക്കുകൾ എല്ലായ്പ്പോഴും ബഹുവചനമായി ഉപയോഗിക്കും അതുകൊണ്ടാണ് ആരോ പറയുന്നത് കേൾക്കുമ്പോൾ " പോലീസ് ആർ കമിങ്" വ്യാകരണം അനുസരിച്ച് നമ്മൾ സെൻസിറ്റീവ് ആണെങ്കിൽ അത് തെറ്റായിത്തീരുന്നു കാരണം പോലീസ് എന്ന വാക്ക് എല്ലായ്പ്പോഴും ബഹുവചനമാണ് നമ്മൾ പറയണം " പോലീസ് ആർ കമിങ് വേർ ആർ മൈ ക്ലോത്ത്സ് യു കാന്നോറ്റ് സെ വേർ ഈസ് മൈ ക്ലോത്ത് You cannot say where is my clothes അതിനാൽ നിങ്ങൾ തുണി പറയുമ്പോൾ അതിന് ഏതെങ്കിലും തുണി ഉണ്ടായിരിക്കാം അതിന് ഒരു തുണി കഷണം ഉണ്ടാകും നല്ലത് അതിനാൽ നിങ്ങൾ വസ്ത്രങ്ങൾ പറയുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഫ്രോക്കിനെ പരാമർശിക്കുന്നു ചില ഉപകരണങ്ങളുടെ പേരുകൾ വീണ്ടും കാണുമ്പോൾ ഉപകരണങ്ങൾ മിക്കപ്പോഴും ബഹുവചനമാണ് വ്യാകരണത്തിന്റെ അടിസ്ഥാന നിയമം ഏകവചനത്തെ ബഹുവചനമാക്കി മാറ്റുന്നതിനാണ് നിങ്ങൾ 's' അല്ലെങ്കിൽ 'es' ചേർക്കുക എന്നാൽ ആളുകൾക്ക് ഒരു വാക്ക് മാത്രമേയുള്ളൂ എന്ന് തോന്നാൻ തുടങ്ങുമ്പോൾ അവ ഏകവചനമായി കണക്കാക്കാം അവ ഒരുപക്ഷേ തെറ്റായിരിക്കാം അതിനാൽ നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നു ബഹുവചനത്തിൽ എല്ലായ്പ്പോഴും ഉള്ള ബൈനോക്കുലറുകൾ കത്രിക കണ്ണട ഗ്ലാസ്binocularscissors spectacles glasses എന്റെ ഗ്ലാസ് എവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല " വേർ ഈസ് മൈ ഗ്ലാസ്സ് "Where is my glass നിങ്ങൾ പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ കുടിക്കുന്ന ഗ്ലാസ് എന്നാണ് അതിനാൽ നമ്മൾ കണ്ണടയെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം അതും എല്ലായ്പ്പോഴും ബഹുവചനത്തിലാണ് ഗ്ലാസുകൾ എല്ലായ്പ്പോഴും ബഹുവചനമാണ് സ്കെയിലുകൾ എല്ലായ്പ്പോഴും ബഹുവചനമാണ് ബ്രീച്ചുകൾ പാന്റുകൾ ജീൻസ് പൈജാമ ട്രസറുകൾ breaches pants jeans pyjamas trousers എന്നിവ പോലുള്ള ചില വസ്ത്രങ്ങൾ എല്ലായ്പ്പോഴും ബഹുവചനമാണ് മാത്രമല്ല ചില സമയങ്ങളിൽ ആളുകൾ ട്രൌസറുകൾ മനസിലാക്കുന്നതിലും എഴുതുന്നതിലും പരാജയപ്പെടുന്നതായി നിങ്ങൾ കണ്ടെത്തും ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കാം ചൈൽഡ് ഒരു ഏകവചനമാണ് ബഹുവചനം ചിൽഡ്രൺ നിങ്ങൾക്കറിയാം എന്നാൽ ചിൽഡ്രൺ എന്ന വാക്ക് സ്വയം ബഹുവചനമാണെന്നും അവർ ചിൽഡ്രൺ എന്നും എഴുതുന്നു എന്ന വസ്തുത പലർക്കും മനസ്സിലാകുന്നില്ല ഏകവചനം ഒരു ചൈൽഡ് ബഹുവചനം ചിൽഡ്രൺ അവർ മറന്നേക്കാം അതിനാൽ എന്തെങ്കിലും ബഹുവചനമായി സംസാരിക്കുമ്പോൾ അതിന് യഥാർത്ഥത്തിൽ "s" അല്ലെങ്കിൽ "es" ഉണ്ടാകും എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഉദാഹരണത്തിന് ചൈൽഡ് ചിൽഡ്രൺ അതിനാൽ പഴയകാല ഉപയോഗവും ഒരു ബ്രദർ ആണ് സഹോദരന്മാരേ ഇപ്പോൾ ബ്രെത്റൻ ഉപയോഗിക്കുന്നു ഇപ്പോൾ s ൽ അവസാനിക്കുന്ന പദങ്ങൾക്ക് ഒരു ക്രിയാപദം എടുക്കാം പക്ഷേ ന്യൂസ് എന്ന വാക്ക് പറയുമ്പോൾ വീണ്ടും ചില പരിമിതികളുണ്ട് ഇതിന് s ഉം ലഭിച്ചു പക്ഷേ അത് ബഹുവചനമല്ല അതിനാൽ ന്യൂസ് അത് ഒരു ബഹുവചനം പോലെ കാണപ്പെടുന്നു പക്ഷേ അത് ബഹുവചനമല്ല അത് എല്ലായ്പ്പോഴും ഏകവചനമാണ് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് " നോ ന്യൂസ് ഈസ് ഗുഡ് ന്യൂസ് ഐ ഹാവ് നോട്ട് റിസീവ്ഡ് എനി ന്യൂസ് ഫ്രം ധം " no news is good news I have not received any news from them ആളുകൾ പലപ്പോഴും പൊളിറ്റിക്സ് എന്ന വാക്ക് ഉപയോഗിക്കുന്നതായി നിങ്ങൾ വീണ്ടും കണ്ടെത്തും പൊളിറ്റിക്സ് എന്നതിന് s ഉം ഉണ്ട് ചിലപ്പോൾ അത് s ആയതിനാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലായിരിക്കാം s ൽ അവസാനിക്കുന്നത് അത് ബഹുവചനമായിരിക്കണം " നോപൊളിറ്റിക്സ് ഈസ് ആൻ ഇന്ട്രെസ്റ്റിംഗ് ഗെയിം ഫോർ ലീഡേഴ്സ് " no politics is an interesting game for leaders ഗണിതശാസ്ത്രം ഭൌതികശാസ്ത്രം ജ്യോതിർഭൌതികം mathematics physics astrophysics എന്നിങ്ങനെ നിരവധി വിഷയങ്ങൾ നിങ്ങൾ കണ്ടെത്തും അതിനാൽ ഇവയെല്ലാം ബഹുവചനമായി കാണപ്പെടുന്നു പക്ഷേ അവ യഥാർത്ഥത്തിൽ ഏകവചനമാണ് അതിനാൽ ചിലപ്പോൾ ഈ വാക്കുകൾ "ഡയബറ്റിക്സ്" എന്ന് പറയുന്നതുപോലെ s വാക്കിൽ അവസാനിക്കുമെങ്കിലും "ഡയബറ്റിക്സ്" ഇത് അവസാനിക്കുന്നു mumps ഇത് s ലും അവസാനിക്കുന്നു എന്നാൽ അവയെല്ലാം ഏകവചനമാണ് അതിനാൽ സ്ലൈഡുകളിലൊന്നിൽ ഒരു വാക്യം റഫർ ചെയ്യുക "ഡയബറ്റിക്സ്" അതിനാൽ "ഡയബറ്റിക്സ്" ആളുകളെ കൊല്ലുന്നു "ഡയബറ്റിക്സ്" ആളുകളെ കൊല്ലുന്നുവെന്ന് നമ്മൾക്ക് പറയാനാവില്ല ഇത് വീണ്ടും ഒരു രോഗമാണെന്ന് അതിനാൽ s ൽ അവസാനിക്കുന്ന നിരവധി പദങ്ങളുണ്ട് പക്ഷേ അവ ഏകവചനമായി കണക്കാക്കണം ഇപ്പോൾ ക്യാപിറ്റലൈസേഷൻ നമുക്ക് കുറച്ച് ശ്രദ്ധ ഉണ്ടായിരിക്കണം അത് വളരെ പ്രധാനമാണ് നമ്മൾ വളരെ വേഗതയുള്ള ഒരു യുഗത്തിൽ നിങ്ങൾക്കറിയാം നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ ചില സമയങ്ങളിൽ വ്യാകരണം മറക്കും അതിനാൽ ചില സമയങ്ങളിൽ ക്യാപിറ്റലൈസേഷൻ ഉപയോഗിക്കാൻ നമ്മൾ ശരിയായി തയ്യാറാകുന്നില്ല അതിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട് നമ്മൾ ചില ശീർഷകങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം നിങ്ങൾ കാണും പ്രധാനമായും ആളുകളുടെ ശീർഷകങ്ങൾ നിങ്ങളുടെ കുടുംബപ്പേര് പോലും കുടുംബപ്പേര് എല്ലായ്പ്പോഴും വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു ഡോക്ടർ വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു പ്രൊഫസർ വലിയ അക്ഷരത്തിനൊപ്പം എഴുതി അത് വലിയ അക്ഷരത്തോടെ ആരംഭിക്കുന്നു നിങ്ങളുടെ കുടുംബപ്പേര് ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് പ്രൊഫസർ മിശ്ര പ്രൊഫസർ സന്യാൽ പ്രൊഫസർ ചക്രവർത്തി അതിനാൽ പ്രൊഫസറിലും ചക്രവർത്തിയിലും ആദ്യ അക്ഷരം വലിയക്ഷരങ്ങളിൽ എഴുതപ്പെടും വീണ്ടും ചില സർക്കാർ പോസ്റ്റുകൾ ഉദാഹരണത്തിന് പ്രധാനമന്ത്രി രാഷ്ട്രപതി വലിയ അക്ഷരത്തിൽ ആരംഭിക്കും വൈസ് ചെയർമാൻ വലിയ അക്ഷരത്തിൽ ആരംഭിക്കും എന്നാൽ ചില സമയങ്ങളിൽ തലക്കെട്ട് ഞാൻ പദവി അർത്ഥമാക്കുന്നു പദവിക്ക് മുമ്പ് നിങ്ങൾ ചില വ്യക്തിയുടെ പേര് ഇടുകയാണെങ്കിൽ ആ വ്യക്തിയുടെ പേര് വലിയ അക്ഷരങ്ങളിൽ ആയിരിക്കും എന്നാൽ പദവി ചെറിയ അക്ഷരത്തിൽ ആയിരിക്കും ഉദാഹരണത്തിന് നമുക്ക് പറയാൻ കഴിയും നിങ്ങൾക്ക് ഇവിടെ ചില ഉദാഹരണങ്ങൾ കാണാം പീയൂഷ് പന്ത് അല്ലെങ്കിൽ പ്രത്യുഷ് പന്ത് അൻഷുൽ എന്റർപ്രൈസസിന്റെ ഡയറക്ടർ അൻഷുൽ എന്റർപ്രൈസസ് വലിയ അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്നത് കാണുക കാരണം ഇത് ഒരു ഓർഗനൈസേഷന്റെ പേരാണ് എന്നാൽ ഡയറക്ടർ ശ്രീ പ്രത്യുഷ് പന്ത് ഡയറക്ടറാണ് അദ്ദേഹത്തിന്റെ പേര് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് എന്നാൽ പദവി ചെറിയ അക്ഷരത്തിൽ എഴുതപ്പെടും ശീർഷകം അപ്പോസിറ്റീവ് പിന്തുടരുമ്പോൾ വലിയ അക്ഷരങ്ങളിൽ ഒഴിവാക്കണം മുമ്പ് വരുന്ന ഒന്നാണ് അപ്പോസിറ്റീവ് ഉദാഹരണത്തിന് ഒരു വാക്ക് പ്രൊഫസർ മാത്രം തുടർന്ന് പേര് പിന്തുടരുന്നു അതിനാൽ ഒന്നുകിൽ പേര് തുടക്കത്തിൽ വരുന്നു അല്ലെങ്കിൽ പേര് പിന്നീട് വരുന്നു പക്ഷേ ഒരു ഉചിതമായ അല്ലെങ്കിൽ എന്തെങ്കിലും വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ പദവി ചെറിയ അക്ഷരങ്ങളിൽ ആയിരിക്കും ഇത് ഓർക്കണം എന്റെ പ്രിയ സുഹൃത്ത് " ഒൺലി വൺ പ്രൊഫസർ ജോനാഥൻ റീവ്സ് ഒബ്ജക്റ്റ് ടു ന്യൂ സിലബസ്" Only one professor Jonathan Reeves objected to the new syllabus പ്രൊഫസർ ഒരു പദവിയാണെങ്കിലും വൺ പ്രൊഫസർ മാത്രമേ ഇവിടെ കാണുകയുള്ളൂ എന്നാൽ ആ വ്യക്തിയുടെ പേര് വന്നതിനാൽ പദവി ചെറിയ അക്ഷരങ്ങളിൽ എഴുതപ്പെടും ഒരു വ്യക്തിയുടെ പേര് ഇല്ലെങ്കിൽ വിഷയം പദവിയിൽ ആരംഭിക്കുന്നു തുടർന്ന് അത് വ്യക്തിയുടെ പേര് മാറ്റിസ്ഥാപിക്കുന്നു വീണ്ടും അത് ചെറിയ അക്ഷരത്തിൽ ആയിരിക്കും ഉദാഹരണത്തിന് ഇവിടെ വാക്യം ഡയറക്ടറും ഫിനാൻസ് മാനേജരും ഇവിടെ നിങ്ങൾക്ക് ഡയറക്ടർ എഴുതാൻ കഴിയില്ല നിങ്ങൾക്ക് ഡയറക്ടർ എഴുതാൻ കഴിയില്ല പക്ഷേ നിങ്ങൾ ഇത് വിലാസമായി എഴുതുമ്പോൾ മാത്രമേ ഇത് എഴുതാൻ കഴിയൂ ഡയറക്ടർ ഐഐടി റൂർക്കി അതിനാൽ ഇവിടെ നമുക്ക് വലിയ അക്ഷരങ്ങളിൽ എഴുതാം പക്ഷേ നിങ്ങൾ ഒരു വാചകം എഴുതുമ്പോൾ പേര് ഇല്ല അതിനാൽ ഒരു പൂർണ്ണ വാക്യത്തിൽ നമുക്ക് ഡയറക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന് പറയാൻ കഴിയും രണ്ട് സാഹചര്യങ്ങളിലും നിങ്ങൾ ഒരു ഡെപ്യൂട്ടി ഡയറക്ടറെ കണ്ടെത്തും അതിനാൽ ഈ രണ്ട് സാഹചര്യങ്ങളിലും ഇത് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടില്ലെന്ന് നിങ്ങൾ കണ്ടെത്തും അതിനാൽ ഇത് കണക്കിലെടുക്കേണ്ടതുണ്ട് കൈവശമുള്ള സർവ്വനാമങ്ങളുള്ള തലക്കെട്ടുകൾ ഉപയോഗിച്ച് വീണ്ടും വലിയക്ഷരമാക്കൽ ഒഴിവാക്കണം ഉദാഹരണത്തിന് നിങ്ങൾ എന്റെ സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ എന്റെ സൂപ്പർവൈസർ വാക്യം ഇതിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് കരുതുക അതിനാൽ സ്വാഭാവികമായും ഇവിടെ ഇത് വലിയക്ഷരമാണ് കാരണം ഒരു വാചകം വലിയ അക്ഷരത്തിൽ ആരംഭിക്കുന്നു പക്ഷേ ഇവിടെ ഈ സൂപ്പർവൈസർ ചെറിയ അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്നു അതിനാൽ ഇവ വളരെ ചെറിയ ഉദാഹരണങ്ങളാണ് എന്നാൽ കൃത്യതയുടെ ഈ സൂക്ഷ്മതകളെക്കുറിച്ച് നാം വളരെ ശ്രദ്ധാലുവായിരിക്കണം നിങ്ങൾ കണ്ടെത്തുന്ന രണ്ട് സാഹചര്യങ്ങളിലും നിങ്ങളുടെ സഹോദരൻ അവന്റെ വഴികാട്ടി ഗൈഡ് സഹോദരൻ എന്നിവ ചെറിയ അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്നു വകുപ്പുകളുടെ പേരുകൾ വകുപ്പുകളുടെ പേര് സ്ഥാപനങ്ങൾ ഇവയെല്ലാം വലിയ അക്ഷരങ്ങളിൽ ആയിരിക്കും സംഘടനകൾക്കുള്ളിലെ വകുപ്പുകളുടെയോ കമ്മിറ്റികളുടെയോ പേരുകൾ ആയിരിക്കും ഉദാഹരണത്തിന് ഞാൻ ET സെല്ലിൽ നിന്ന് ഒരു പ്രഭാഷണം നടത്തുന്നു അല്ലേ ഇപ്പോൾ ഇടി സെൽ ഈ സ്ഥാപനത്തിന്റെ ഭാഗമാണ് അതിനാൽ എന്റെ വാക്യത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ET സെൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി സെൽ എഴുതുന്നു വിദ്യാഭ്യാസ സാങ്കേതിക സെല്ലിൽ നിന്നാണ് ഞാൻ ഈ പ്രഭാഷണം നടത്തുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസ സാങ്കേതിക സെൽ യഥാർത്ഥത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളിലെ ഒരു വകുപ്പാണ് അതിനാലാണ് ഇത് വലിയ അക്ഷരങ്ങളിൽ എഴുതുന്നത് നിങ്ങൾക്ക് നോക്കാൻ കഴിയുന്ന ചില ഉദാഹരണങ്ങൾ ഇതാ ഡൽ ഹാസ് ഇൻസ്ട്രക്ടർ ക്വാളിറ്റി കൺട്രോൾ യൂണിറ്റ് Dell has instructed its Quality Control Unit ഈ ഗുണനിലവാര നിയന്ത്രണ യൂണിറ്റ് ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാണ് ലാപ്ടോപ്പിൽ ചില പുതിയ സവിശേഷതകൾ ചേർക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഡെൽ അതിന്റെ ഗുണനിലവാര നിയന്ത്രണ യൂണിറ്റിന് നിർദ്ദേശം നൽകി രണ്ടാമത്തെ വാചകം വീണ്ടും നോക്കുക " ഹി ഹാസ് സെൻറ് എ ഫ്രഷ് റിക്വസ്റ്റ് ഫോർ ഫോർ കോമ്പൻസേഷൻ ടു ദി ഫോർ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ് he has sent a fresh request for compensation to the firm's personnel department to the firm's personnel department ഇവിടെ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് ചെറിയ അക്ഷരങ്ങളിൽ എഴുതിയിട്ടുണ്ട് എന്നാൽ ഈ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് വലിയ അക്ഷരങ്ങളിൽ എഴുതണം നിങ്ങളുടെ അറിവ് പരീക്ഷിക്കുന്നതിനായി ഞാൻ ഇത് വളരെ മനപൂർവ്വം ചേർത്തിട്ടുണ്ട് അവസാന വാചകം നിങ്ങൾ കാണുന്നു " നോക്കിയ ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ പ്ലാൻസ് ഇൻ കിഡ്സ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി യൂണിറ്റ് " അത് വീണ്ടും ഒരു വലിയ സ്ഥാപനത്തിന്റെ ചെറിയ ഭാഗത്തിന്റെ ഭാഗമാണ് അതിനാലാണ് ഇത് വലിയക്ഷരമാക്കിയത് ഇപ്പോൾ മിക്കപ്പോഴും അപ്പോസ്ട്രോഫികൾ നൽകുമ്പോൾ ആളുകൾ പലപ്പോഴും തെറ്റുകൾ വരുത്തുന്നതായി നിങ്ങൾ കണ്ടെത്തും ഇപ്പോൾ അപ്പോസ്ട്രോഫി എന്താണ് ഒരു അപ്പോസ്ട്രോഫി എന്ന് മനസിലാക്കാൻ ശ്രമിക്കാം അപ്പോസ്ട്രോഫിക്ക് നിരവധി അർത്ഥങ്ങളുണ്ട് അപ്പോസ്ട്രോഫി യഥാർത്ഥത്തിൽ ബന്ധം കാണിക്കുന്നു നിങ്ങൾ ഒരു അപ്പോസ്ട്രോഫി ഇടുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് വൺസ് ഔന് എന്ന് പറയാൻ കഴിയും ഇപ്പോൾ ഇവിടെ വൺസ് ഔന് അപ്പോസ്ട്രോഫി ഉണ്ട് നിങ്ങൾക്കറിയാമോ ചില സമയങ്ങളിൽ ആളുകൾ തെറ്റുകൾ വരുത്തുകയും നിങ്ങൾ പലപ്പോഴും കണ്ടുമുട്ടുന്ന ഒരു പ്രധാന തെറ്റ് സംഭവിക്കുകയും ചെയ്യുന്നു ആളുകൾ യുവേഴ്സ് എഴുതുന്നത് നമ്മൾ കണ്ടപ്പോൾ അവർ അവിടെ അപ്പോസ്ട്രോഫി നൽകുന്നു ഇത് യഥാർത്ഥത്തിൽ എന്റെ പ്രിയ സുഹൃത്ത് ഒരു വലിയ മണ്ടത്തരമാണ് അതിനാൽ ദയവായി അത് ചെയ്യരുത് അതിനാൽ ഇത് യുവേഴ്സ് ഫെയ്ത്ഫുള്ളി നിങ്ങളുടെ വിശ്വസ്തതയോടെ എന്നാൽ ഭൂരിപക്ഷം ആളുകളും യുവേഴ്സ് ശേഷം അവർ അപ്പോസ്ട്രോഫി ഇടുകയാണെന്ന് നിങ്ങൾക്കറിയാം ദിസ് ബുക്ക് ഈസ് യുവേഴ്സ് എസിന്റ ഇറ്റ് this book is your's isn't എന്ന് പറയുമ്പോൾ ഇത് നല്ലതാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് അതിനാൽ നമ്മൾ അപ്പോസ്ട്രോഫിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉദാഹരണത്തിന് "വൺ ഇയർസ് ടൈം ടു ഇയർസ് ടൈം" one years time two years time എന്ന് നിങ്ങൾ പറയുമ്പോൾ ദയവായി കാണുക ചിലപ്പോൾ നിങ്ങൾ പറയും ഓൾ ദി വിമെൻസ് അസ്സോസിയേഷൻസ് ഹാവ് വെൽകാമെദ് ദി ന്യൂ റെഗുലേഷൻസ് ഓൺ ക്രൈം കൺട്രോൾ all the women's associations have welcomed the new regulations on crime control വിമെൻസ് Women's അതിനാൽ അപ്പോസ്ട്രോഫി നൽകിയിട്ടുണ്ട് എന്നാൽ ചിലപ്പോൾ s എന്ന് ആരംഭിക്കുന്ന ചില വാക്കുകൾ ഉണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരു അപ്പോസ്ട്രോഫി ഇടുകയാണെങ്കിൽ അതിന് ഇതിനകം s ഉണ്ടെന്ന ധാരണയിലാണ് നിങ്ങൾ പക്ഷെ ഇല്ല പേര് അവസാനിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ജെയിംസ് ബുക്ക് ഇസ്റന്റ് ഇറ്റ് James book isn't it അതിനാൽ ഇപ്പോൾ ഇത് രണ്ട് വഴികളിലും എഴുതാം ജെയിംസ് ജെയിംസിന്റെ പുസ്തകം എന്നിവയും കീറ്റ്സിന്റെ കവിതയും ഇതുപോലെയാണ് ഇതിൽ രണ്ടും ശരിയാണ് അതിനാൽ ഉടമസ്ഥാവകാശം കാണിക്കുന്നതിന് അപ്പോസ്ട്രോഫി ഉപയോഗിക്കേണ്ടതുണ്ട് എന്നാൽ ചിലപ്പോൾ ഒരു വാക്ക് s ശബ്ദത്തിൽ അവസാനിക്കുമ്പോൾ ഈ അപ്പോസ്ട്രോഫിയും ഉപയോഗിക്കാം നിങ്ങൾ ഈ സ്ലൈഡുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഉദാഹരണങ്ങൾ ഇതിനകം നൽകിയിട്ടുണ്ട് സ്റ്റുഡന്റസ് വ്യൂസ് students views ഗേൾസ് ഹോസ്റ്റൽ girls hostel പെൺകുട്ടികൾ ബഹുവചനമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ ഒരു അപ്പോസ്ട്രോഫി ഇടുന്നു ഗേൾസ് ഹോസ്റ്റൽ girls hostel ജൂഡ്ജ്സ് വേർഡിക്ട് judges verdict അല്ലെങ്കിൽ ജൂഡ്ജ്സ് വേർഡിക്ട് judges verdict അതാണ് യഥാർത്ഥത്തിൽ അർത്ഥം ന്യായാധിപന്മാരുടെ വിധി ഇപ്പോൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് വിഷയ ക്രിയ ഉടമ്പടിയാണ് പ്രത്യേകിച്ച് നീണ്ട വാക്യങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്നത് നിങ്ങൾ കണ്ടെത്തും അവിടെ നിങ്ങൾക്ക് വിഷയം കണ്ടെത്താൻ കഴിയില്ലെന്ന് നിങ്ങൾ കണ്ടെത്തും അതിനാലാണ് വാക്യത്തിന്റെ അവസാന ഭാഗത്തുള്ള ക്രിയ നിങ്ങൾ ഇടുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ആശയക്കുഴപ്പമുണ്ട് തുടർന്ന് വിഷയവും ക്രിയയും തമ്മിലുള്ള വിയോജിപ്പിന്റെ പ്രശ്നം ഉണ്ടാകുന്നു നിങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിലും രണ്ട് ആളുകൾ തമ്മിൽ ഒരു കരാറുമില്ലെങ്കിൽ അവർക്ക് ഒരുമിച്ച് നടക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ കണ്ടെത്തും അല്ലേ അതിനാൽ വാക്യങ്ങളിൽ ഭാഷയിൽ വിഷയവും ക്രിയകളും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായിരിക്കണം ഉദാഹരണത്തിന് വ്യത്യസ്ത വിഭാഗത്തിലുള്ള വിഷയങ്ങൾ നിങ്ങൾ കണ്ടെത്തും ഏതെങ്കിലും വിഷയം ഒരു വ്യക്തിപരമായ നാമവിശേഷണത്തോടെ ആരംഭിക്കാം ചിലപ്പോൾ വിഷയം പ്രീപോസിഷനിൽ നിന്ന് ആരംഭിക്കാം ചിലപ്പോൾ അത് ഒരു ക്രിയാപദം ഉപയോഗിച്ച് ആരംഭിക്കാം അതിനാൽ ചിലപ്പോൾ മറ്റ് ചില കാര്യങ്ങളുമായി ചിലപ്പോൾ വാക്യത്തോടെ ചിലപ്പോൾ ഉപവാക്യത്തോടെ അല്ലേ ഇപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ കോൺകോർഡിന്റെ ഉപയോഗത്തെക്കുറിച്ച് നിങ്ങൾ വളരെ വ്യക്തമായിരിക്കണം ഇതിനെ കരാർ എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് നണ് ഓഫ് തിസ് മാനേജേഴ്സ് ഹാവ് സബ്മിറ്റഡ് തേർ റിപ്പോർട്സ് ഇപ്പോൾ ഒന്നുമില്ല എന്ന വാക്ക് എടുക്കുക നിങ്ങളുടെ വിഷയം നണ് ഓഫ് എന്ന് ആരംഭിക്കുമ്പോൾ വീണ്ടും ഈ നണ് ഓഫ് ക്രിയ എല്ലായ്പ്പോഴും ബഹുവചനമായിരിക്കും കാരണം ശേഷം മാനേജർമാർ ഇല്ല അത് ബഹുവചനമാണ് എന്നാൽ ചിലപ്പോൾ നിങ്ങൾ ഒരെണ്ണം മാത്രം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ഉദാഹരണത്തിന് ഐ ഹാവ് ബിൻ വെയ്റ്റിംഗ് ഫോർ സ്റ്റുഡന്റസ് ബട്ട് നണ് ഓഫ് തേം ഹാസ് കം I have been waiting for students but none of them has come ഇപ്പോൾ ഇവിടെ നണ് ഓഫ് ഹാസ് കം എന്ന അർത്ഥത്തിൽ ഒരു മാറ്റമുണ്ട് അർത്ഥം അവയിലൊന്ന് പോലും വന്നിട്ടില്ല അതിനാൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിരിക്കണം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്ന നിരവധി വാക്യങ്ങളുണ്ട് ഈതെർ ഓർ നെയ്തർ നോർ നോർ ഇച് nor each എന്നിവ ഉപയോഗിച്ച് എല്ലാവരും ഇത് ഇഷ്ടപ്പെടുന്നു അതിനാൽ ഏകവിഷയങ്ങളിൽ ഇതെർ ഓർ നെയ്തർ നോർ വരുന്ന ക്രിയ ഏകവചനമായിരിക്കും ഉദാഹരണത്തിന് ഒന്നുകിൽ വർക്ക്സ് മാനേജർ അല്ലെങ്കിൽ ഷിഫ്റ്റ് ഇൻ ചാർജ് ഇപ്പോൾ ഇവിടെ വർക്ക്സ് മാനേജർ അല്ലെങ്കിൽ ചുമതലയുള്ള ഷിഫ്റ്റ് നിങ്ങൾ കാണുന്നു രണ്ടും ഏകവചനമാണ് ഇതിൽ ഇതെർ ഓർ ചേരുന്നു അതിനാൽ ഇവിടെ ക്രിയാപദം ഏകവചനമാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം പക്ഷേ ഓർക്കുക ചിലപ്പോൾ ആദ്യ വിഷയം വ്യത്യസ്തവും രണ്ടാമത്തെ വിഷയം വ്യത്യസ്തവുമാണ് അതുവഴി രണ്ട് വിഷയങ്ങളും ഒരേ സംഖ്യയിലല്ല അത്തരമൊരു സാഹചര്യത്തിൽ ക്രിയ ഏറ്റവും അടുത്തുള്ള വിഷയവുമായി യോജിക്കും ഈ വിഷയങ്ങൾ എണ്ണത്തിലും വ്യക്തിയിലും വ്യത്യാസപ്പെടുമ്പോൾ അതിനാൽ അത്തരമൊരു സാഹചര്യത്തിൽ ഉദാഹരണത്തിന് ഈതെർ ഹി ഓർ ഐ റ്റു ബ്ലെയ്മ് നൌ വാട്ട് വിൽ ബി തേർ either he or I to blame now what will be there എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും ഇപ്പോൾ ഇതാ ഒരു വിഷയമാണ് ഏതാണ് ഏറ്റവും അടുത്തുള്ള വിഷയം അതിനാൽ ക്രിയ അടുത്തുള്ള വിഷയം അനുസരിച്ച് ആയിരിക്കും അതിനാൽ ഞാൻ പറയും ഈതെർ ഹി ഓർ ഐ റ്റു ബ്ലെയ്മ് നൌ വാട്ട് വിൽ ബി തേർ ഇപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വാചകം നൽകാം നെയ്തേർ ദി ഡോക്ടർ" ഇപ്പോൾ ഡോക്ടർ ഒരു ഏകവചനമാണ് ഈതെർ ഓർ നെയ്തേർ നോർ ദി നഴ്സസ് വെർ സീൻ ഓൺ ദി ആക്സിഡന്റ് സൈറ് അതിനാൽ നിങ്ങൾക്ക് മറ്റൊരു വിഷയം ഉള്ളപ്പോൾ വിഷയങ്ങൾ ഈതെർ ഓർ നെയ്തേർ നോർ ചേരുമ്പോൾ ക്രിയ ഏറ്റവും അടുത്തുള്ള വിഷയവുമായി യോജിക്കും വിഷയം ഓരോന്നിലും ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിയകളൊന്നും മൂന്നാം വ്യക്തി ഏകവചനത്തിന് ആവശ്യമായ ഫോം സ്വീകരിക്കില്ല ഉദാഹരണത്തിന് ഇച്ച് ഓഫ് ദിസ് പോളിസിസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നയങ്ങൾ മാറ്റുന്നത് ബഹുവചനമാണ് എന്നാൽ വിഷയം ഇച്ച് ഓഫ് ആരംഭിക്കുന്നതിനാൽ ക്രിയ ഏകവചനമായിരിക്കും അതിന്റേതായ പരിമിതികളുണ്ട് ചിലപ്പോൾ വാക്യങ്ങൾ എ ഗ്രൈട് ഡീൽ ഓഫ് എ ഗുഡ് ഡീൽ a great deal of a good deal ഉപയോഗിച്ച് ആരംഭിക്കും ക്രിയയുടെ പ്രീപോസിഷന്റെ ഒബ്ജക്റ്റുമായി യോജിക്കും ഉദാഹരണത്തിന് എ ഗ്രേയ്റ് ഡീൽ ഓഫ് മണി ഹാസ് ബിൻ സ്പെന്റ് ഓൺ ദിസ് ബ്രിഡ്ജ് a great deal of money has been spent on this bridge മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡന്റസ് ഫീൽ നേർവസ് ദി നൈറ്റ് ബിഫോർ തിയർ എക്സാമിനെയ്ഷൻ Most of the students feel after students that is plural feel nervous the night before their examination സ്റ്റുഡന്റസ് എന്നതു ബഹുവചനംആണ് അതിനാൽ വിഷയവും ക്രിയയും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായിരിക്കണം കൂടാതെ കരാറിന്റെ നിയമങ്ങളും വ്യത്യാസപ്പെടും അടുത്തത് ചിലപ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾ ഒരു സർവനാമത്തിൽ ആരംഭിക്കുകയും സർവനാമം ഇൻഡെഫിനിറ് സർവനാമം ചെയ്യും ഉദാഹരണത്തിന് എനിബോഡി നോബോടി ഈച് ഈതർ എവിരി എവിരി വൺ anybody nobody each either every everyone ഇവിടെ നിങ്ങൾക്ക് അറിയില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേകതയുമില്ല അതിനാലാണ് ഇത് ഇൻഡെഫിനിറ് സർവനാമം അത്തരമൊരു സാഹചര്യത്തിൽ ക്രിയ എല്ലായ്പ്പോഴും ഏകവചനമായിരിക്കും ഉദാഹരണത്തിന് ഇച് ഓഫ് ദി എംപ്ലോയീസ് ഹാസ് റ്റു ഫോള്ളോ ഒഫീഷ്യൽ നോർമസ് എവെരിവണ് ഇൻ ബോത്ത് ഓഫീസെസ് വാസ് റെക്കമെൻഡഡ് ഫോർ ആൻ എസ്കലേഷൻ ഓർ ഫോർ എ പ്രൊമോഷൻeach of the employees has to follow official norms everyone in both offices was recommended for an escalation or for a promotion ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു പ്രധാന കാര്യം ആർട്ടികിൽ ഉപയോഗത്തിൽ നമ്മളിൽ മിക്കവരും പലപ്പോഴും പ്രശ്നങ്ങൾ നേരിടുന്നു പ്രത്യേകിച്ച് സയൻസ് വിദ്യാർത്ഥികൾ നിരാശരായ അവർ യു ഇംഗ്ലീഷ് പീപിൾ ഹാവ് ഗോഡ് ലോട്സ് ഓഫ് ആർട്ടികൾസ് ഇസ്റന്റ് ഇറ്റ് you English people have got lots of articles isn't it അതിനാൽ ഞങ്ങളുടെ കാര്യത്തിൽ ആർട്ടിക്കിൾസ് a an the നിങ്ങൾ പാലിക്കേണ്ട ലളിതമായ നിയമം നിങ്ങൾ ഒരിക്കലും അസന്തുഷ്ടരാകില്ല ആ ലളിതമായ ചട്ടം വാക്ക് ആണെങ്കിൽ ആപ്പിൾ എന്ന് പറഞ്ഞാൽ വാക്ക് കരുതപ്പെടുന്നു എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് ആൻ ആപ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ആൻ ആപ്പിൾ ആൻ എന്തുകൊണ്ട് ഉണ്ടായിരിക്കണം യഥാർത്ഥത്തിൽ ഈ വാക്ക് ഉച്ചരിക്കേണ്ടതുണ്ട് ശബ്ദം സ്വരാക്ഷരമാണെന്ന് നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് a ഉപയോഗിക്കും ശബ്ദം വ്യഞ്ജനാക്ഷരമാണെങ്കിൽ അത് a ഉപയോഗിക്കും ഉദാഹരണത്തിന് ആദ്യ സ്ലൈഡ് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഞാൻ ഒരു S O പറഞ്ഞിരുന്നു ഇപ്പോൾ നിങ്ങൾ ഈ വാക്ക് S O എന്ന് ഉച്ചരിക്കുന്നു അതിനാൽ നിങ്ങൾ S O എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ ആദ്യം വരുന്ന ശബ്ദം a ആണ് അതിനാലാണ് ഇത് S O ആയിരിക്കണം പക്ഷേ ഇത് പൂർത്തിയാകുമ്പോൾ സൂപ്രണ്ട് ശബ്ദം വ്യഞ്ജനാക്ഷരമാണ് അതുകൊണ്ടാണ് ഇത് ഒന്നുകിൽ the അല്ലെങ്കിൽ എ എടുക്കും ഒപ്പം അതിനിടയിലും ഒരു പ്രത്യേക വസ്തുവുമായി ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ അവ ഉപയോഗിക്കണം അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആരെയെങ്കിലും കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ നമ്മൾ ക്ക് എല്ലായ്പ്പോഴും എ മാനേജർ എന്ന് പറയാൻ കഴിയും ഐ മറ്റ് എ മനേജർ എന്നാൽ നിങ്ങൾ ഇതിന്റെ ദി മാനേജർ വ്യക്തമാക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ വ്യക്തമാക്കുകയാണ് എന്നാൽ കൃത്യമായ ആർട്ടികിൽ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളുണ്ടെന്ന് ഓർമ്മിക്കുക ഉദാഹരണത്തിന് സ്ഥലങ്ങളുടെ പേരുകൾ പ്രധാന സ്ഥലങ്ങൾ പ്രത്യേകിച്ചും നദികളുടെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും പറയുന്ന പർവതങ്ങൾ ദി ഗംഗ ദി യമുന ദി മഹാഭാരത ദി രാമായണ ദി ബൈബിൾദി ഗീത വേദങ്ങൾ the Ganges the Yamuna names of great books നിങ്ങൾ പത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലായ്പ്പോഴും ദി ടൈംസ് ഓഫ് ഇന്ത്യ ദി ടെലിഗ്രാഫ് ദി ഹിന്ദു എന്നിവ ഉപയോഗിക്കണം എന്നാൽ ചിലപ്പോൾ നമ്മൾ ദി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കണ്ടെത്തും നമ്മൾ ക്ക് ഒരു സവിശേഷതയുണ്ട് ഉദാഹരണത്തിന് റിച് ആർ ബ്ലെസിഡ് എന്ന് നമ്മൾ പറയുന്നു ഇപ്പോൾ റിച് എന്തുകൊണ്ട് അതിനാൽ അവിടെയുള്ള ഈ റിച് ഒരു തരം ധനികരെ സൂചിപ്പിക്കുന്നു അതിനാൽ അത് എല്ലായ്പ്പോഴും ബഹുവചനമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ദി റിച് ആർ നൌ ലെഫ്റ് അസ് ഡോക്ടർ ജോൺസന്റെ ഒരു ഉദ്ധരണി നേടുക ഞാൻ ജ്ഞാനികളുമായി പുഞ്ചിരിക്കട്ടെ ധനികരോടൊപ്പം ഭക്ഷണം നൽകട്ടെ അതിനാൽ ജ്ഞാനികളോടൊപ്പം പുഞ്ചിരിക്കുക അതിനാൽ അവൻ ജ്ഞാനികൾ എന്നു പറയുമ്പോൾ അവൻ ഒരു വ്യക്തിയെ അർത്ഥമാക്കുന്നില്ല എന്നാൽ യഥാർത്ഥത്തിൽ അവൻ അർത്ഥമാക്കുന്നത് ജ്ഞാനികളുടെ ഒരു വിഭാഗം അതുകൊണ്ടാണ് 'ദി' എന്ന കൃത്യമായ ആർട്ടികിൽ ഉപയോഗിച്ചിരിക്കുന്നത് മൈ ബ്രദർ ഈസ് എ യൂണിവേഴ്സിറ്റി പ്രൊഫസർ My brother is a University Professor യൂണിവേഴ്സിറ്റി ഇവിടെ നമ്മൾക്ക് പൊതുവായി അറിയാവുന്നതിനാൽ നമ്മൾക്ക് പറയാൻ കഴിയില്ല ഇതൊരു സ്വരാക്ഷരമാണെന്ന് നമ്മൾക്ക് തോന്നുന്നു പക്ഷേ ഇല്ല നമ്മൾ അത് ഉച്ചരിക്കുമ്പോൾ അത് സർവ്വകലാശാലയുടെ വ്യഞ്ജനാക്ഷരമാണ് എ യൂണിവേഴ്സിറ്റി പ്രൊഫസർ എ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഇതുപോലെയല്ല വീണ്ടും നിങ്ങൾക്ക് മറ്റൊരു ഉദാഹരണം എടുക്കാം ബ്യുട്ടി ഇപ്പോൾ ബ്യുട്ടി വീണ്ടും ഒരു നാമപദമാകാം ബ്യുട്ടി ഒരു പുണ്യമാകാം ചില സമയങ്ങളിൽ ബ്യുട്ടി ഒരു ഗുണമായിരിക്കും ബ്യുട്ടി വിതൌട്ട് വെർച്യു ഈസ് എ ഫ്ലവർ വിതൌട്ട് പെർഫ്യൂം നമ്മൾ ആശയവിനിമയം നടത്തുമ്പോഴെല്ലാം എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഒന്നുകിൽ ആശയവിനിമയത്തിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ചർച്ചാ രൂപത്തിലോ ചില സമയങ്ങളിൽ മറ്റുള്ളവർ സ്ഥിരീകരിക്കാനും സ്ഥിരീകരിക്കാനും നിങ്ങൾ ആഗ്രഹിച്ചേക്കാം നമ്മൾ ചോദ്യ ടാഗ് എന്ന് വിളിക്കുന്ന അധികമായി നിങ്ങൾ ഉപയോഗിക്കുന്നു ആളുകൾ ചില സമയങ്ങളിൽ ഈ ടാഗുകളുടെ ഉപയോഗത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു കാരണം ഈ ടാഗുകൾ ഒന്നുകിൽ സ്ഥിരീകരിക്കുകയോ നെഗറ്റീവായി ഉപയോഗിക്കുകയോ ചെയ്യുന്നുവെങ്കിലും നിങ്ങൾ സംസാരിക്കുന്ന മറ്റ് കക്ഷികളിൽ നിന്നും ഒരുതരം സ്ഥിരീകരണം ലഭിക്കാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നുവെന്നും അതിനാലാണ് നിങ്ങൾ ടാഗുകൾ ഉപയോഗിക്കുന്നതെന്നും ഓർമ്മിക്കുക എന്നാൽ സമയങ്ങളുണ്ട് ഉദാഹരണത്തിന് പീപ്പിൾ ആർ ഹാപ്പി people are happy നമ്മൾ പറയുന്നുവെന്ന് കരുതുക ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ആളുകൾ സന്തുഷ്ടരാണ് ഇതിന് ശേഷം ഒരു ടാഗ് ഉണ്ടാകും നിങ്ങൾ എല്ലാവരും എന്റെ ഗതി ആസ്വദിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നിങ്ങൾ എല്ലാവരും എന്റെ കോഴ്സ് ആസ്വദിക്കുന്നു എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നുവെന്ന് കരുതുക പക്ഷേ ഇപ്പോൾ എന്റെ കോഴ്സ് ആസ്വദിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഒരുതരം സ്ഥിരീകരണം ലഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഒരു ടാഗ് ഉപയോഗിക്കണം ഇപ്പോൾ ഒരു കാര്യം ഓർക്കുക എന്റെ പ്രിയ സുഹൃത്ത് നിങ്ങൾ വളരെ സന്തോഷിക്കും അതിനാൽ നിങ്ങൾ ഒരു ടാഗ് ഇടേണ്ട സമയത്ത് ക്രിയ എന്താണ് ഉപയോഗിച്ചതെന്ന് കാണുക ടാഗ് എല്ലായ്പ്പോഴും നെഗറ്റീവ് ആയിരിക്കും കാരണം നെഗറ്റീവ് ഇടുന്നതിലൂടെ നമ്മൾ ക്ക് ഒരുതരം സ്ഥിരീകരണം ലഭിക്കുന്നു അതിനാലാണ് ആളുകൾ സന്തുഷ്ടരാണെന്ന് നമ്മൾ പറയുന്നത് അല്ലേ അല്ലേ എഗൈൻ യു ആർ ഓൾ എന്ജോയിങ് മൈ കോഴ്സ് ആരെന്റ് യു Again you are all enjoying my course aren't you അതിനാൽ ഇവിടെയും നമ്മൾ ഒരു അപ്പോസ്ട്രോഫി ഉപയോഗിക്കുന്നുവെന്ന് നിങ്ങൾ കണ്ടെത്തും പക്ഷേ ടാഗ് ഉണ്ടെങ്കിൽ ദയവായി അത് കാണുക ഇവിടെയുള്ള വാക്ക് സ്ഥിരീകരണമാണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും എന്നാൽ ഇവിടെ സഹായകം നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് സ്ഥിരീകരിക്കും യു ടു നോട്ട് ലൈക്ക് മി ടു യു You do not like me do you എന്നാൽ ഞാൻ I ഉപയോഗിക്കുമ്പോഴെല്ലാം ഒരു പരിമിതി ഉണ്ട് ഉദാഹരണത്തിന് ഞാൻ നന്നായി പഠിപ്പിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഓക്സിലിയേരി പക്ഷേ ഞാൻ ടാഗ് ഉപയോഗിക്കേണ്ടിവരുമ്പോൾ റൂൾ പറയുന്നു ഞാൻ ഉപയോഗിക്കണം "ആർ" "ഐ" "I അല്ല ആം ടീച്ചിങ് വെൽ അരിന്റ ഐ "iam teaching well aren't I"അതിനാൽ ഇത് നിങ്ങൾ ഓർക്കേണ്ട ഒരു അപവാദമാണ് പക്ഷേ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ കോഴ്സ് ആസ്വദിച്ചിട്ടില്ലെന്നും ടാഗ് ഹാവ് യു have you" ആയിരിക്കും അതിനാൽ നിങ്ങളുടെ ചങ്ങാതിമാർക്കിടയിൽ ഒരു ചർച്ച നടത്തുമ്പോഴും നിങ്ങൾ ഒരുതരം സംഭാഷണം നടത്തുമ്പോഴും ഇത് വളരെ പ്രധാനമാണ് അതിനാൽ ദയവായി ഈ ടാഗുകൾ ഓർമ്മിക്കുക പ്രീപോസിഷൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും നമ്മിൽ മിക്കവരും പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും പലപ്പോഴും പ്രീപോസിഷന്റെ ഉപയോഗത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ എങ്ങനെ ഒരു വിദഗ്ദ്ധനാകും എന്ന ചോദ്യം നിങ്ങൾ ചോദിച്ചേക്കാം പ്രീപോസിഷനുകൾ ഉപയോഗിക്കുന്നതിൽ നമ്മൾക്ക് ഒരു വിദഗ്ദ്ധനാകാൻ കഴിയില്ല പക്ഷേ വ്യാകരണത്തെക്കുറിച്ചുള്ള നല്ല പുസ്തകങ്ങളിലൂടെ കടന്നുപോകുന്നതിലൂടെ നമുക്ക് ധാരാളം പരിശീലിക്കാൻ കഴിയും പക്ഷേ ആളുകൾക്ക് പലപ്പോഴും തോന്നുന്ന പ്രീപോസിഷനുകളുടെ ചില ഉപയോഗങ്ങൾ ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു അവർ പറഞ്ഞത് ശരിയാണ് പക്ഷേ ശരിയല്ല ഉദാഹരണത്തിന് ഐ യാം സീനിയർ റ്റു യു I am senior than you പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതിനാൽ സീനിയർ ജൂനിയർ ശ്രേഷ്ഠൻ താഴ്ന്നവൻ എന്നീ വാക്കുകൾ ദയവായി ഓർക്കുക മിസ്റ്റർ റാത്തോഡ് ഈസ് സീനിയർ റ്റു മി ബൈ ഫൈവ് ഇയർസ് Rathore is senior to me by 5 years വീണ്ടും സിൻസ് ഫോർ എന്നിവയുടെ ഉപയോഗത്തിൽ ആളുകൾ പലപ്പോഴും കണ്ടുമുട്ടുന്ന മറ്റൊരു പ്രശ്നമുണ്ട് അതിനാൽ ഇവിടെ ജാഗ്രത പാലിക്കുക ഉറപ്പുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ സമയം അറിയാമെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് ഉദാഹരണത്തിന് ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇൻ ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സൈനസ് 2007 I have been teaching in this institute since 2007 ഇപ്പോൾ 2007 എന്ന് പറയുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഒരു ഉറപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാൽ ഹി ഹാസ് ബിൻ വർക്കിംഗ് ഫോർ ഫോർ ഈയർസ് he has been working for 4 years എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് 4 വർഷം എന്ന് നിങ്ങൾക്കറിയില്ല അതുകൊണ്ടാണ് ഇതിനെ ഒരു സമയദൈർഘ്യം എന്നും ഒരു കാലഘട്ടം എന്നും വിളിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് പൂർണ്ണമായും അറിവുണ്ടെന്ന് തോന്നുമ്പോഴെല്ലാം നിങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് അത്തരമൊരു കാര്യം പ്രേസേന്റ്റ് കണ്ടിന്യുസ്സ് അല്ലെങ്കിൽ പ്രേസേന്റ്റ് പെർഫെക്ട് കണ്ടിന്യുസ്സ് ആയിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം ഞാൻ പഠിപ്പിക്കുകയാണ് ഐ ഹാവ് ബീന ടീച്ചിങ് I have been teaching " ഹി ഹാസ് ബീൻ ടീച്ചിങ് സിൻസ്" he has been teaching since നിങ്ങൾ സിൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിർദ്ദിഷ്ട സമയം ചൂണ്ടിക്കാണിക്കണം ഉദാഹരണത്തിന് മിസ്റ്റർ ദേശ്മുഖ് ഹാസ് ബിൻ ബദ്റിദ്ദേണ് ഫോർ ദി ലാസ്റ് ത്രീ ഡേയ്സ് എന്ന് ഞാൻ പറഞ്ഞാൽ Mr Deshmukh has been bedridden for the last three days ഇപ്പോൾ നിങ്ങൾ കണക്കിലെടുക്കേണ്ട പ്രീപോസിഷനുകളുടെ കുറച്ച് ഉപയോഗമുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തും ചില സമയങ്ങളിൽ ഇത് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ കണ്ടെത്തും ഹി ഫൌണ്ട ദി പുവർ ബോയ് സിറ്റിംഗ് ബിസെഡ് ദി ഡ്രൈവർ പക്ഷേ ചിലപ്പോൾ ആളുകൾ ബിസെഡ്സ് എഴുതുന്നു എന്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാർ "ബിസെഡ്സ്" യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പുറമേ അറിയാമെന്ന് അർത്ഥമാക്കുന്നു പക്ഷേ നിങ്ങൾ "ബിസെഡ്" എന്ന് പറയുമ്പോൾ വശത്ത് ബിസെഡ്സ് ടീച്ചിങ് besides teaching ഐ റൈറ്റ് ബുക്സ് I write books അതിനാൽ ഞാൻ പഠിപ്പിക്കുക മാത്രമല്ല പുസ്തകങ്ങൾ എഴുതുകയും ചെയ്യുന്നു ദി പ്രീസ്റ് വാസ് അബ്സോർബ്ഡ് ഇൻ ഇൻ ദി മെഡിറ്റേഷൻ വെൻ ഐ റീച് ദി ടെമ്പിൾ റൂർകീ ലൈസ് ബിട്വീന് മീററ്റ് ആൻഡ് ഹരിദ്വാർ Roorkee lies between Meerut and Haridwar ഇപ്പോൾ രണ്ട് വസ്തുക്കൾ കാണിക്കുമ്പോൾ നിങ്ങൾ കാണുന്നു അതിനാൽ ഒരു താരതമ്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ടിനുമിടയിലായിരിക്കുമ്പോഴോ നിങ്ങൾ ബിട്വീന് ഉപയോഗിക്കണം ഒപ്പം ബിവെർ ഓഫ് ഇൻസിഡിയാസ് ഫ്രണ്ട് ബെവെറേ ഓഫ് ഫ്രോഡ് ഫ്രണ്ട് beware of insidious friends beware of fraud friends ഓൾ ഓഫ് അസ് മസ്റ്റ് കംപ്ലയ് വിത്ത് ദി റെഗുറേഷൻ അല്ലാതെ റ്റു ദി റെഗുലേഷൻ അല്ല All of us must comply with the regulation not to the regulation ഈ കോഴ്സ് വിവിധ മേഖലകളിലെ നിങ്ങളുടെ വിജയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും അതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒപ്പം ഒരു നല്ല വ്യാകരണ പുസ്തകം നിങ്ങൾക്ക് ഈ മുൻഗണനകളെല്ലാം നൽകുമെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് മതിയായ സമയമുണ്ടെന്ന് കണ്ടെത്തിയാൽ നിങ്ങൾക്ക് അവ ഓർമ്മിക്കാനും ഫലപ്രദമായി ഉപയോഗിക്കാനും കഴിയും ഇപ്പോൾ ശബ്ദമാണ് എന്തും രണ്ട് വ്യത്യസ്ത ശബ്ദങ്ങളിൽ പറയാൻ കഴിയും ആക്റ്റീവ് ആൻഡ് പാസ്സീവ് നമ്മൾ ആക്റ്റീവ് വോയിസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ക്രിയ വിഷയത്തിന് തൊട്ടുപിന്നാലെ വരുന്നു പക്ഷേ നിങ്ങൾ പാസിവ് വോയിസ് ഉപയോഗിക്കുമ്പോൾ ക്രമത്തിൽ ഒരു മാറ്റമുണ്ട് ഉദാഹരണത്തിന് നീണ്ട സംസാരം പ്രേക്ഷകരെ ബാധിച്ചില്ല യു ആർ രീക്വസ്റ്റഡ് റ്റു സുബ്മിറ്റ് ദി റിപ്പോർട്ട് ബൈ ദി വീക്കെൻഡ് you are requested to submit the report by the weekend എന്ന് നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ ഇത് ആക്റ്റീവ് ആണ് നിങ്ങൾ ഒരു പ്രത്യേക ശബ്ദം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ചില അർത്ഥം ചേർക്കുന്നുവെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം യു ആർ അഡ്വൈസ്ഡ് റ്റു സുബ്മിറ്റ് യുവർ റിപ്പോർട്ട് you are advised to submit your report വീണ്ടും പാസ്സീവ് എന്നാൽ നിങ്ങൾക്ക് ഇത് സജീവമായി പറയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ പ്ളീസ് സബ്മിറ്റ് ദി റിപ്പോർട്ട് ദി സ്ട്രീറ്റ്സ് ആർ സ്വെപ്റ് എവെരി ഡേ please submit your report The streets are swept every day അതിനാൽ ആരോ ഈ തെരുവുകൾ എല്ലാ ദിവസവും അടിക്കുന്നു വി എക്സ്പെക്ട് ഗുഡ് ന്യൂസ് We expect good news ഇത് ആക്റ്റീവ് ആണ് പക്ഷേ നമുക്ക് ഇത് പാസിവ് ആയി ഉപയോഗിക്കാൻ കഴിയും ദി ഗുഡ് ന്യൂസ് ഈസ് എക്സ്പെക്റ്റഡ് the good news is expected അതിനാൽ രണ്ട് ശബ്ദങ്ങളുണ്ട് അത് പൂർണ്ണമായും നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഒപ്പം നിങ്ങൾ ഏത് ശബ്ദമാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ആക്റ്റീവ് ആയി നിങ്ങൾ എന്തെങ്കിലും എഴുതുമ്പോൾ എങ്ങനെ ഞങ്ങളുടെ എഴുത്ത് വിഭാഗത്തിൽ നമ്മൾ ഇതിനകം ചർച്ചചെയ്തു നിങ്ങൾ പാസ്സീവ് വോയ്സിൽ എന്തെങ്കിലും എഴുതുമ്പോൾ ആഘാതം കുറവാണ് ആക്റ്റീവ് വോയ്സിൽ ആഘാതം കൂടുതലാണ് തുടർന്ന് പരിവർത്തനം വരുന്നു ചില സമയങ്ങളിൽ ആളുകൾ ദിസ് ഹാൾ ഈസ് ടൂ സ്മാൾ റ്റു അക്കൊമൊഡേറ്റ തർട്ടീ ഗസ്റ്സ് this hall is too small to accommodate thirty guests എന്ന വാക്യങ്ങളും ഉപയോഗിക്കുന്നു അർത്ഥം ഹാളിന് കഴിയാത്തത്ര ചെറുതാണ് അതിനാൽ ടൂ ഉള്ളപ്പോഴെല്ലാം അർത്ഥം നെഗറ്റീവ് ആണ് ക്യാൻ എ ലേപാർഡ് ചെയിന്ജ് ഇറ്സ് സ്കിൻ Can a leopard change its skin വാക്യം ചോദ്യം ചെയ്യപ്പെടുന്നതാണെന്ന് കാണുക എന്നാൽ അർത്ഥം നെഗറ്റീവ് ആണ് പുള്ളിപ്പുലിയുടെ തൊലി മാറ്റാൻ കഴിയില്ല അതിനാൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ എല്ലാത്തരം വാക്യങ്ങളും ഉപയോഗിക്കുന്നു എന്റെ പ്രിയ സുഹൃത്തേ അർത്ഥം സ്പീക്കർ ഉപയോക്താവ് ദി ഏറോപ്ലെയ്ന് ഫ്ളൈസ് ഫാസ്റ്റർ ദാൻ ബീഡ്സ് The airplane flies faster than birds അർത്ഥം എന്താണ് ഇത് ഡിഗ്രിസ് ഓഫ് കംപാറിസോൺ വിമാനങ്ങളുടെ അത്ര വേഗത്തിൽ പക്ഷികൾ പറക്കില്ല അതിനാൽ ഫലപ്രദമായ ഉപയോക്താവെന്ന നിലയിൽ ഇവ ചില വഴികളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഫലപ്രദമായ പ്രഭാഷകനെപ്പോലെ നമ്മൾ കണക്കിലെടുക്കണം ചില സമയങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ചില വാക്കുകളും നിങ്ങൾ കാണും ആളുകൾ എന്തെങ്കിലും ഉപയോഗിക്കാൻ പ്രതീക്ഷിക്കുന്നതായി നമ്മൾ കണ്ടു പക്ഷേ അവർ മറ്റെന്തെങ്കിലും ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് ആഫെക്ട് ഐ ഹോപ് മൈ ലെക്ച്ചർസ് ഹാവ് എഫെക്റ്റഡ് യു അതിനാൽ എഫെക്റ്റഡ് എന്നതിനർത്ഥം മതിപ്പുളവാക്കുകയോ സ്വാധീനിക്കുകയോ ചെയ്യുക എന്നാണ് പക്ഷേ ഞാൻ പറയുമ്പോൾ ഈസ് തെരെ എനി എഫെക്ട് ഓഫ് മൈ ലെക്ച്ചർ ഓൺ യു Is there any effect of my lecture on you അതിനാൽ മറ്റൊരു സന്ദർഭത്തിൽ ഇത് ഒരു നാമപദമായി മാറുന്നു ഔപചാരികമായി ഈ കോഴ്സ് അവസാനിക്കുമെന്ന് നമ്മൾ പറയുന്നു എന്റെ പ്രിയ സുഹൃത്ത് പക്ഷേ അന അന്നൌപ്ചാരികമായി നിങ്ങൾ എല്ലാവരും എന്റെ ചങ്ങാതിമാർ നിങ്ങൾക്ക് ഏത് നിമിഷവും എന്നെ ബന്ധപ്പെടാം അതിനാൽ ഔപചാരികമായി ഞാൻ ഉദ്ദേശിക്കുന്നത് ഔപചാരിക രീതിയിലാണ് എന്നാൽ നിങ്ങൾ " ഫോർമെർലി" ഉപയോഗിക്കുമ്പോൾ മുമ്പ് ഞാൻ പ്രഭാഷണങ്ങൾ നടത്താൻ ശ്രമിച്ചു മുമ്പത്തെ അവസരങ്ങളിൽ മുമ്പത്തെ അർത്ഥം അതിനാൽ ചെറിയ അക്ഷരവിന്യാസത്തോടെ ഒരു പ്രത്യേക പദത്തിന്റെ മാറ്റത്തിലൂടെ അർത്ഥത്തിന്റെ മാറ്റം മനസിലാക്കാൻ ശ്രമിക്കാം ഉദാഹരണത്തിന് ആളുകൾ ലൂസ് ലോസ് എന്നിവ ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കാം അതിനാൽ നിങ്ങൾ l ഡബിൾ o s e എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ മറ്റൊരു അർത്ഥമുള്ള അയഞ്ഞതും l o s e ഉം " ഹി ഈസ് ആൽവേസ് അഫ്രെയ്ഡ് ദാറ്റ് ഹി ഈസ് ഗോയിങ് റ്റു ലോസ് ഹിസ് ജോബ് " അതിനർത്ഥം ജോലി നഷ്ടപ്പെടും എന്നാണ് എന്നാൽ നിങ്ങൾ അയഞ്ഞ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും അയവുള്ളതാക്കുക ഐ ടു നോട ലൈക് ലൂസ് ടാൽക്സ് I do not like loose talks വീണ്ടും സ്റ്റേഷണറി സ്റ്റേഷനറി stationary and stationery എന്നിവ മിക്കപ്പോഴും ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നു അതിനാൽ നിങ്ങൾ സ്റ്റേഷണറി ഉപയോഗിക്കുമ്പോഴെല്ലാം നിങ്ങൾ സ്ഥലത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നാൽ നിങ്ങൾ സ്റ്റേഷനറി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പേപ്പറിനെക്കുറിച്ചും ആവശ്യമായ മറ്റ് കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു നിങ്ങൾ ലെറ്റർ ഉപയോഗിക്കുന്നു ലാറ്റെർ ഐ വിൽ ടോക്ക് റ്റു യു ലെറ്റർ I'll talk to you later അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചർച്ചചെയ്യുമ്പോൾ അത് ലാറ്റെർ എന്ന് നമ്മൾ പറയുന്നു നിങ്ങൾ എനിക്ക് ധാരാളം അഭിനന്ദനങ്ങൾ അയയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിനന്ദനങ്ങൾ എന്റെ ആത്മവിശ്വാസത്തെ പൂർത്തീകരിക്കും പുസ്തകത്തിന്റെ കോംപ്ലിമെന്ററി കോപ്പി അയച്ചു എന്റെ പ്രിയ സുഹൃത്തുക്കളെ വ്യാകരണം യഥാർത്ഥത്തിൽ ഒരു കടലാണ് നിങ്ങൾ എത്ര ശ്രമിച്ചാലും അതിൽ ഒരു തുള്ളി മാത്രമേ ഉണ്ടാകൂ പക്ഷേ നിങ്ങളുടെ ഹൃദയം നഷ്ടപ്പെടരുത് കാരണം നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് ഒരുതരം പ്രഭാവം സൃഷ്ടിക്കാൻ നമ്മൾ ഇവിടെയുണ്ട് അതിനാൽ നിങ്ങളുടേതായ ഒരു വിലയിരുത്തൽ നടത്താനും നിങ്ങളുടെ പ്രവർത്തന ശൈലിക്ക് പൂരകമാകാൻ കഴിയുന്ന അഭിനന്ദനങ്ങൾ വാഗ്ദാനം ചെയ്യാനും നിങ്ങൾക്ക് കഴിയും നിങ്ങൾ എല്ലാവരും എന്നെയും എന്റെ പ്രഭാഷണങ്ങളെയും വളരെ ക്ഷമയോടെ കേൾക്കുന്നുണ്ടെന്നും നിങ്ങൾക്ക് ഒരു വിരസതയും അനുഭവപ്പെട്ടിരിക്കില്ലെന്നും ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ ആരംഭിക്കുന്ന എന്തെങ്കിലും അവസാനിക്കേണ്ടതുണ്ട് ഈ കോഴ്സും ഒരു നിഗമനത്തിലെത്താൻ പോകുന്നു നമ്മൾ നന്നായി ആരംഭിച്ചു നന്നായി ആരംഭിക്കുന്ന ഒന്ന് പകുതി പൂർത്തിയായി എല്ലാ ശുഭാപ്തി കുറിപ്പുകളിലും ഞാൻ നന്നായി തുടങ്ങിയപ്പോൾ അത് നന്നായി അവസാനിക്കുമെന്ന പ്രതീക്ഷയും എനിക്കുണ്ടായിരുന്നു കാരണം ഈ കോഴ്സിൽ ഞാൻ ചെലുത്തിയ അധ്വാനത്തിന്റെ അളവും സഹപ്രവർത്തകർ എനിക്ക് നൽകിയ സഹായവും നമ്മൾ വിശ്വസിക്കുന്നു ഈ കോഴ്സ് വിജയകരമാക്കുന്നതിന് ആശയവിനിമയത്തെക്കുറിച്ചും ടെലിഫോൺ വഴിയാണോ അതോ വാക്കാൽ എഴുതിയതാണോ എന്ന ആശയവിനിമയത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഞാൻ മന ib പൂർവ്വം ക്രമീകരിക്കാവുന്ന രീതിയിൽ സംസാരിച്ചു തുടർന്ന് നിങ്ങളുടെ വ്യക്തിപരമായ കഴിവുകൾ അറിയുന്നതിലൂടെ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ താൽപ്പര്യം സൃഷ്ടിക്കണോ എന്ന് ബലഹീനതകളും മികച്ച ഉദ്ദേശ്യങ്ങൾ കാരണം സ്വാധീനം സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെടുകയും നമ്മൾ ഒരുതരം ആശയവിനിമയ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ജീവിതത്തിലും ഓർഗനൈസേഷനുകളിലും തടസ്സങ്ങൾ ഉണ്ട് പക്ഷേ തടസ്സങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയും എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഞങ്ങളുടെ ജോലിസമയത്ത് മുകളിൽ ജോലിസ്ഥലങ്ങളിൽ എങ്ങനെ പലതരം കത്തുകൾ ഡ്രാഫ്റ്റുകൾ നിരവധി തരം റിപ്പോർട്ടുകൾ എഴുതണം ഡാറ്റ ശേഖരിക്കുക വിശകലനം ചെയ്യുക അഭിമുഖങ്ങളിൽ ഗ്രൂപ്പ് ചർച്ചകളിൽ എങ്ങനെ നമ്മൾ എങ്ങനെ പ്രത്യക്ഷപ്പെടണം എന്നതിനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടതുണ്ട് നമ്മൾ എങ്ങനെ ഒരു സമർത്ഥനായ നേതാവായി സ്വയം കാണിക്കണം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമ്മൾ എങ്ങനെ പ്രസംഗങ്ങൾ നടത്തണം അവസാനമായി നമ്മുടെ വികാരങ്ങളും ഒരു തരത്തിലുള്ള സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സ്വയം തീരുമാനിക്കേണ്ടതുണ്ട് ഈ കോഴ്സ് പൂർത്തിയാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഈ കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ എനിക്ക് ഒരുതരം സംതൃപ്തി തോന്നുന്നു എന്നാൽ നിങ്ങൾ സംതൃപ്തരാകുമ്പോൾ മാത്രമേ ഈ സംതൃപ്തി ശരിയാകൂ കോഴ്സ് പൂർത്തിയായി അത് എല്ലായ്പ്പോഴും നിങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ കഴിയുന്ന നിലയിലായിരിക്കും ക്വിസുകളിലൂടെയും ടെസ്റ്റുകളിലൂടെയും നിങ്ങൾ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഈ കോഴ്സ് ആരംഭിക്കുമ്പോൾ നിങ്ങളേക്കാൾ മികച്ചതായി നിങ്ങൾക്ക് തോന്നുന്നു ആത്യന്തികമായി ഞാൻ നിങ്ങളോട് എല്ലാം പറയട്ടെ എല്ലാം നന്നായി അവസാനിക്കുന്നു ഞാൻ നിങ്ങളോട് വിട പറയട്ടെ വിജയകരമായ ജീവിതം വിജയകരമായ കരിയർ വിജയകരമായ അഭിമുഖം വിജയകരമായ അനുഭവം എന്നിവ ലഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിലൂടെ നിങ്ങൾക്ക് സംതൃപ്തരായ ആളുകളുടെ റാങ്കുകളിൽ ചേരാനാകും അവർ അവരുടെ സംഘടനകളുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ പോകുന്നു വളരെ നന്ദി നിങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷകരവും സമ്പന്നവുമായ പഠനാനുഭവം നേരുന്നു വളരെയധികം നന്ദി